വൈദ്യുതകാന്തിക തരംഗങ്ങൾ വഹിക്കുന്ന ഊർജ്ജവും തീവ്രതയും മൊമെൻ്റവും മുൻപത്തെ രണ്ട് പ്രഭാഷണങ്ങളിൽ നമ്മൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായി പുറത്തുവരുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു പ്രത്യേകിച്ചും നമ്മൾ x ദിശയിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് E x t എന്നത് E 0 സൈൻ k x മൈനസ് ഒമേഗ t ക്ക് തുല്യമാണ് കൂടാതെ B x t എന്നത് B 0 സൈൻ k x മൈനസ് ഒമേഗ t ക്ക് തുല്യമാണ് നിങ്ങൾ ഇത് സാമാന്യവൽക്കരിക്കുകയാണെങ്കിൽ എനിക്ക് യൂണിറ്റ് വെക്റ്റർ n ന്റെ ദിശയിൽ തരംഗം സഞ്ചരിക്കുന്നതായി എഴുതാൻ കഴിയും ഇത് E r വെക്റ്റർ t എന്നാൽ E 0 സൈൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേസിലെ കൊസൈൻ അതിനാൽ എനിക്ക് ഇത് k ഡോട്ട് r മൈനസ് ഒമേഗ t എന്ന് എഴുതാം B യെ r t എന്നിവയുടെ ഫംഗ്ഷനായി B 0 സൈൻ k ഡോട്ട് r മൈനസ് ഒമേഗ t ക്ക് തുല്യമായി എഴുതാം എനിക്ക് ഒന്നുകൂടി പൊതുവായി എഴുതണമെങ്കിൽ ഒരു കൊസൈൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കാൻ കഴിയുന്ന ഒരു ഫേസ് φ ഞാൻ കൂട്ടിച്ചേർക്കും ഇവിടെ k എന്നാൽ സഞ്ചാരത്തിൻറെ ദിശയിൽ 2 പൈ ഓവർ ലാംഡയ്ക്ക് തുല്യമായിരിക്കും ErtE0sin k

r ωtϕ k2πn മുമ്പത്തെ പ്രഭാഷണത്തിൽ i ദിശയിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ നമ്മൾ കണ്ടു അവ i ഡോട്ട് E 0 പൂജ്യമായിരുന്നു കൂടാതെ i ഡോട്ട് B 0 പൂജ്യമായിരുന്നു അതുപോലെ k ഡോട്ട് E 0 ആകും കാരണം വൈദ്യുത മണ്ഡലം സഞ്ചാര ദിശക്ക് ലംബമാണ് ഇതുപോലെ k ഡോട്ട് ബി 0 ആകും E ക്രോസ് B സഞ്ചാരത്തിന്റെ ദിശയിലേക്ക് പോകും ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്തെ തരംഗങ്ങളിലാണ് അത് ഹാർമോണിക് സമതല തരംഗങ്ങളാണ് അതിനാൽ സമതല തരംഗങ്ങൾ ഹാർമോണിക് മോണോ ക്രോമാറ്റിക് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒമേഗ ഉപയോഗിച്ച് നീങ്ങുന്ന തരംഗങ്ങൾ എന്നിവ നോക്കി ഈ തരംഗങ്ങളുടെ ഊർജ്ജ ഉള്ളടക്കം എന്താണെന്നും അവ എത്ര ഊർജ്ജം വഹിക്കുന്നുവെന്നും എത്രമാത്രം ആക്കം ഉൾക്കൊള്ളുന്നുവെന്നും കാണാം ഓർക്കുക ഇലക്ട്രോ സ്റ്റാറ്റിക് ഫീൽഡിനായി നമ്മൾ ഇതിനകം കണക്കാക്കിയ അളവാണിത് ഒമേഗ വലുതായിരിക്കുമെന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് പത്ത് റെയ്സ്സ് ടു പതിനഞ്ച് പത്ത് റെയ്സ്സ് ടു പത്ത് പത്ത് റെയ്സ്സ് ടു പതിനാല് എന്നിങ്ങനെയുള്ള മൂല്യങ്ങളിൽ ആണ് അതിനർത്ഥം ഒരു സെക്കൻഡിൽ ഇത്രയധികം കമ്പനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പ്രകാശ തരംഗങ്ങളെക്കുറിച്ചോ മൈക്രോവേവിനെക്കുറിച്ചോ ആണ് ആ സാഹചര്യത്തിൽ അത് ഊർജ്ജ വ്യതിയാനത്തെ അർത്ഥമാക്കുന്നില്ല പക്ഷേ സമയത്തിൻറെ ശരാശരി ഊർജ്ജർജ്ജത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിലൂടെ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു നിശ്ചിത കാലയളവിൽ 1 ഓവർ T എടുക്കുകയും 0 മുതൽ T വരെ നമുക്ക് ലഭിക്കുന്ന ഏത് അളവും ഇൻ്റഗ്രേറ്റ് ചെയ്യും അളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊർജ്ജ സാന്ദ്രത അല്ലെങ്കിൽ ഊർജ്ജ പ്രവാഹം അല്ലെങ്കിൽ മൊമെൻ്റം എന്നിവയാണ് അതിനാൽ ഉയർന്ന ആവൃത്തിയിൽ നമ്മൾ കാണുന്നത് ഉദാഹരണത്തിന് ഞാൻ ഈ വെളിച്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ അത് മാറുന്നതായി കാണുന്നില്ല ഞാൻ ഒരു സ്ഥിരമായ വെളിച്ചം കാണുന്നു കാരണം ഇത് സെക്കന്റിൽ പത്ത് റെയ്സ്സ് ടു പതിനഞ്ച് തവണ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഞാൻ എന്റെ കണ്ണുകളിൽ ശരാശരി വെളിച്ചം കാണുന്നു എങ്ങനെയെങ്കിലും അത് ശരാശരി ആയി കാണിക്കുന്നു അതിനാൽ നമുക്ക് E എന്നാൽ E 0 സൈൻ k ഡോട്ട് r മൈനസ് ഒമേഗ t എന്നും B എന്നാൽ B 0 സൈൻ k ഡോട്ട് r മൈനസ് ഒമേഗ t എന്നിവയ്ക്ക് തുല്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് φ ചേർക്കാൻ കഴിയും നമുക്ക് ഊർജ്ജ ഉള്ളടക്കം കണക്കാക്കാം വൈദ്യുത മണ്ഡലത്തിലെ ഊർജ്ജം ഒരു പകുതി എപ്സിലോൺ 0 E സ്ക്വയർ ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ഒരു പകുതി എപ്സിലോൺ 0 ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ അതായത് E 0 സ്ക്വയർ സൈൻ k ഡോട്ട് r മൈനസ് ഒമേഗ t ആകും ഓർക്കുക ഇത് സമയത്തിനനുസരിച്ച് വളരെ വേഗത്തിൽ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഞാൻ സംസാരിക്കുന്നത് ശരാശരി ഊർജ്ജത്തെക്കുറിച്ചാണ് അപ്പോൾ ശരാശരി ഊർജ്ജം ഒരു പകുതി എപ്സിലോൺ 0 E 0 സ്ക്വയർ 1 ഓവർ T 0 മുതൽ T വരെ സൈൻ സ്ക്വയർ k ഡോട്ട് r മൈനസ് ഒമേഗ t d t ആണ് ഇത് നിങ്ങളുടെ സാധാരണ ഗണിതത്തിൽ നിന്ന് ഒരു പകുതിയാണ് അതിനാൽ ഇത് എപ്സിലോൺ 0 E 0 സ്ക്വയറിന്റെ നാലിലൊന്ന് ആയിത്തീരുന്നു ഊർജ്ജ ഉള്ളടക്കം120E2120E02k r ωtdt140E02 സമയ ശരാശരി0E021T0T k r ωtdt140E02 കാന്തിക മണ്ഡലത്തിലെ ഊർജ്ജം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ കണക്കുകൂട്ടാം കാന്തിക മണ്ഡലം നിങ്ങൾ ഓർക്കുന്നു അത് 1 ഓവർ 2 mu 0 B സ്ക്വയർ ഊർജ്ജം വഹിക്കുന്നു ആം 1 ഓവർ 2 mu 0 B 0 സ്ക്വയർ സൈൻ സ്ക്വയർ k ഡോട്ട് r മൈനസ് ഒമേഗ t ആകുന്നു ഇതിൽ സമയ ശരാശരി എടുത്താൽ എനിക്ക് 2 എന്ന മറ്റൊരു ഘടകം ലഭിക്കും അതിനാൽ ഇത് 1 ഓവർ 4 mu 0 B 0 സ്ക്വയർ എന്ന് ലഭിക്കുന്നു അതിനാൽ ഇത് മുൻ പ്രഭാഷണത്തിൽ നിന്ന് B 0 എന്നാൽ E 0 ഓവർ c ആണെന്ന് എന്ന് നമുക്ക് ഓർക്കാം അപ്പോൾ ഇത് 1 ഓവർ 4 mu 0 E 0 സ്ക്വയർ ഓവർ c സ്ക്വയറാകുന്നു 1 ഓവർ c സ്ക്വയർ എന്നാൽ mu 0 എപ്സിലോൺ 0 ആണ് അതിനാൽ ഇത് 1 ഓവർ 4 എപ്സിലോൺ 0 E 0 സ്ക്വയർ ആയി മാറുന്നു അതിനാൽ ഈ വൈദ്യുതകാന്തിക തരംഗത്തിൻറെ വൈദ്യുത മണ്ഡലത്തിലും കാന്തികക്ഷേത്ര ഘടകത്തിലും അടങ്ങിയിരിക്കുന്ന ഊർജ്ജം കൃത്യമായി 1 ഓവർ 4 എപ്സിലോൺ 0 E 0 സ്ക്വയറാണ് നിങ്ങൾ രണ്ടും ചേർത്താൽ ഒരു വൈദ്യുതകാന്തിക തരംഗത്തിൽ ഊർജ്ജ സാന്ദ്രത ഒരു പകുതി എപ്സിലോൺ 0 E 0 സ്ക്വയറായിരിക്കും അതിനാൽ ഈ തരംഗം നിലനിൽക്കുമ്പോൾ ഉദാഹരണത്തിന് ഈ വെളിച്ചം എന്നിലേക്ക് വരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഒരു യൂണിറ്റ് വോളിയത്തിന് ശരാശരി ഊർജ്ജം ഒരു പകുതി എപ്സിലോൺ 0 E 0 സ്ക്വയറാണ് കാന്തിക മണ്ഡലത്തിലെ ഊർജ്ജ ഉള്ളടക്കം120B2120B02k r ωt സമയ ശരാശരി 140B02140E02c2140E02 ഒരു EM തരംഗത്തിലെ ഊർജ്ജ സാന്ദ്രത120E02 അതിനാൽ x ദിശയിൽ സഞ്ചരിക്കുന്ന ഈ തരംഗം നമുക്ക് വീണ്ടും എടുക്കാം ഇവിടെ ചെറിയ യൂണിറ്റ് വോളിയം d v ഉള്ള ഒരു ചെറിയ ബോക്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതിലെ ഊർജ്ജ ഉള്ളടക്കം ഒരു പകുതി എപ്സിലോൺ 0 E 0 സ്ക്വയർ d v ആയിരിക്കും ഇവിടെ ഊർജ്ജത്തിന് ഒഴുക്ക് എങ്ങനെയായിരിക്കും അത് തീവ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പോയിന്റിംഗ് വെക്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോയിന്റിംഗ് വെക്റ്റർ 1 ഓവർ mu 0 E ക്രോസ് B ക്ക് തുല്യമാണ് E ക്രോസ് B തരംഗത്തിൻറെ സഞ്ചാരദിശയിലാണെന്ന് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ എനിക്ക് ഇത് 1 ഓവർ mu 0 ഒരു n ദിശയിൽ mod E 0 mod B 0 സൈൻ സ്ക്വയർ k ഡോട്ട് r മൈനസ് ഒമേഗ t എന്നിങ്ങനെ എഴുതാം B 0 വീണ്ടും E 0 by c എന്ന് നമ്മൾ ഓർക്കുന്നു അതിനാൽ എനിക്ക് ഇത് സഞ്ചാരദിശയിൽ 1 ഓവർ mu 0 mod E 0 സ്ക്വയർ ഓവർ c സൈൻ സ്ക്വയർ k ഡോട്ട് r മൈനസ് ഒമേഗ t എന്ന് എഴുതാൻ കഴിയും സമയ ശരാശരി എടുക്കുകയാണെങ്കിൽ ഇത് ഒരു പകുതിയുടെ ഘടകം ആയിരിക്കും അതിനാൽ ഇത് 1 by 2 mod E 0 സ്ക്വയർ ഓവർ mu 0 c എന്നാൽ എപ്സിലോൺ 0 mu 0 എന്നതിന്റെ വർഗ്ഗമൂലം അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ തരംഗ സഞ്ചാര ദിശയിൽ ഇത് 1 by 2 എപ്സിലോൺ 0 ഓവർ mu 0 എന്നതിൻറെ വർഗ്ഗമൂലം E 0 സ്ക്വയർ ആയി മാറുന്നു പോയിന്റിംഗ് വെക്റ്റർ 10EB10nE0B0k r ωt സമയ ശരാശരി പോയിന്റിംഗ് വെക്റ്റർ12E02000 അതായത് ഒരു വൈദ്യുതകാന്തിക തരംഗം ഒരു യൂണിറ്റ് പ്രദേശത്തിന് ഒരേ ദിശയിൽ ഏതെങ്കിലും ദിശയിലേക്ക് പോകുകയാണെങ്കിൽ ഒഴുകുന്ന ഊർജ്ജം 1 by 2 സ്ക്വയർ റൂട്ട് എപ്സിലോൺ 0 ഓവർ mu 0 E 0 സ്ക്വയർ ആണ് ഊർജ്ജ സാന്ദ്രതയുടെ വീക്ഷണകോണിൽ നിന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഊർജ്ജ പ്രവാഹം ഏതെങ്കിലും മുൻ പ്രഭാഷണത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അത് c മടങ്ങ് ഊർജ്ജ സാന്ദ്രത u ആണ് ഇത് 1 ഓവർ സ്ക്വയർ റൂട്ട് എപ്സിലോൺ 0 mu 0 തവണ 1 by 2 എപ്സിലോൺ 0 E 0 സ്ക്വയർ ആണ് ഇത് 1 by 2 സ്ക്വയർ റൂട്ട് എപ്സിലോൺ 0 ഓവർ mu 0 E 0 സ്ക്വയറിന് തുല്യമാണ് ഊർജ്ജത്തിൻറെ ഒഴുക്ക്c u100120E021200E02 അതിനാൽ അതാണ് വൈദ്യുതകാന്തിക തരംഗം വഹിക്കുന്ന ഊർജ്ജം അല്ലെങ്കിൽ അത് നമുക്ക് ലഭിച്ച തീവ്രതയാണ് വൈദ്യുതകാന്തിക തരംഗം വഹിക്കുന്ന മൊമെൻ്റവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു മൊമെൻ്റം ഡെൻസിറ്റി S ഓവർ c സ്ക്വയർ അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഓർക്കുക നമുക്കത് പരിശോധിക്കാം മോഡുലസ് S എന്നാൽ ഓരോ യൂണിറ്റ് പ്രദേശത്തിനും ഊർജ്ജം M L സ്ക്വയർ T റെയ്സ് ടു മൈനസ് 2 ഓവർ L സ്ക്വയർ T ആണെന്ന് നമുക്ക് പരിശോധിക്കാം അത് M L T റെയ്സ് ടു മൈനസ് 1 ഓവർ L ക്യൂബ് എന്ന് ലഭിക്കും അതിനാൽ ഞാൻ ഇവിടെ c സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ c സ്ക്വയർ എന്നാൽ L സ്ക്വയർ T റെയ്സ് ടു മൈനസ് 2 അല്ലാതെ മറ്റൊന്നുമല്ല ഇത് ഞാൻ ഒഴിവാക്കുകയും അതിനാൽ എനിക്ക് M L T റെയ്സ് ടു മൈനസ് 1 ഓവർ L ക്യൂബ് എന്ന് ലഭിക്കും ഇതാണ് മൊമെൻ്റം ഡെൻസിറ്റി അതിനാൽ ഒരു സമതല വൈദ്യുതകാന്തിക തരംഗം പോകുന്നുവെങ്കിൽ അതിൻറെ മൊമെൻ്റം ഡെൻസിറ്റി 1 by 2 സ്ക്വയർ റൂട്ട് എപ്സിലോൺ 0 ഓവർ mu 0 E 0 സ്ക്വയർ ഓവർ c സ്ക്വയറിന് തുല്യമാണ് ഈ മൊമെൻ്റം ഡെൻസിറ്റി കണക്കിലെടുക്കുമ്പോൾ എന്താണ് മൊമെൻ്റത്തിൻറെ ഒഴുക്ക് മൊമെൻ്റം ഡെൻസിറ്റി|S|c2 |S|c2MLT 1L3 മൊമെൻ്റത്തിൻറെ ഒഴുക്ക് മറ്റൊന്നുമല്ല നമ്മൾ അവയെ u മടങ്ങ് മൊമെൻ്റം ഡെൻസിറ്റി ആയി എഴുതുന്നു അത് 1 by 2 എപ്സിലോൺ 0 ഓവർ mu 0 E 0 സ്ക്വയർ ഓവർ c ആകുന്നു അതിനെ u ൻറെ പദത്തിൽ എഴുതുമ്പോൾ s എന്നത് c തവണ u ആണ് u എന്നാൽ വൈദ്യുതകാന്തിക മണ്ഡലത്തിലെ ഊർജ്ജ സാന്ദ്രതയാണ് ഇത് ഓവർ c സ്ക്വയർ അതായത് mu ഓവർ c മാത്രമല്ല മൊമെൻ്റത്തിൻറെ ഒഴുക്ക് u തന്നെയാണ് ഇവിടെ മൊമെൻ്റത്തിൻറെ ഒഴുക്കുണ്ടെങ്കിൽ ഒരു വൈദ്യുതകാന്തിക തരംഗം ഈ വഴിക്ക് പോകുന്നു ഇത് ഒരു യൂണിറ്റ് സമയത്തിന് ഒരു u യൂണിറ്റ് ഏരിയയ്ക്ക് തുല്യമായ ഒരു മൊമെൻ്റം വഹിക്കുന്നു എന്നാണ് അതിനർത്ഥം ആ മൊമെൻ്റം എന്താണ് ചെയ്യുന്നത് ഞാനിവിടെ താഴേയ്ക്ക് വീഴുന്ന എല്ലാ റേഡിയേഷനുകളും ആഗിരണം ചെയ്യുന്ന ഒരു സ്ക്രീൻ വച്ചിരിക്കുന്നു എന്ന് കരുതുക താഴേയ്ക്ക് വീഴുന്ന എല്ലാ റേഡിയേഷനുകളും ആഗിരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അതായത് ഒരു ഒരു യൂണിറ്റ് സമയത്തിന് ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ മൊമെൻറും അത് ആഗിരണം ചെയ്യുന്നു എന്നാണ് അതിനാൽ ഇതിന് ഈ ദിശയിലേക്ക് മൊമെൻ്റം കൂട്ടണം അത് ഒരു യൂണിറ്റ് പ്രദേശത്തിന് ഒരു യൂണിറ്റ് സമയത്തിന് മൊമെൻ്റം കൂട്ടുന്നു അതായത് ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് ഉള്ള ബലം അത് മർദ്ദത്തിന് തുല്യമാണ് അതിനാൽ ഒരു സ്ക്രീനിൽ വീഴുന്ന ഒരു വൈദ്യുതകാന്തിക തരംഗം ഊർജ്ജ സാന്ദ്രതയ്ക്ക് തുല്യമായ മർദ്ദം പ്രയോഗിക്കുന്നു തരംഗം കൃത്യമായി പ്രതിഫലിക്കുന്നുവെങ്കിൽ ഒരു യൂണിറ്റ് പ്രദേശത്തിന് യൂണിറ്റ് സമയത്തിന് വരുന്ന മൊമെൻ്റം u ആയിരിക്കും സമ്മർദ്ദത്തിൽ വീണ്ടും u നൊപ്പം പുറത്തേക്ക് പോകുന്ന മൊമെൻ്റം രണ്ടിന് തുല്യമായിരിക്കും അതിനാൽ പ്രകാശത്തിന്റെ അല്ലെങ്കിൽ താപത്തിന്റെ രൂപത്തിൽ നമ്മൾ കാണുന്ന ഊർജ്ജം e m തരംഗങ്ങൾ വഹിക്കുന്നുവെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു E m തരംഗങ്ങളിൽ നിന്ന് വരുന്നവ മൊമെൻ്റം കൂട്ടുന്നു ഇത് സൂചിപ്പിക്കുന്നത് വീഴുന്ന ഉപരിതലത്തിൽ അവ സമ്മർദ്ദം ചെലുത്തുമെന്നാണ്